നമുക്ക് ഗ്രീഡി അൽഗോരിതങ്ങൾ നോക്കാം അതിനാൽ തിരഞ്ഞെടുപ്പുകളുടെ ഒരു ശ്രേണി ഉണ്ടാക്കിക്കൊണ്ട് ഒരു ആഗോള ഒപ്റ്റിമം നേടാൻ ആവശ്യമായ അൽഗോരിതം ഞങ്ങൾ നോക്കുകയാണ് അതിനാൽ ഒരു ഗ്രീഡി തന്ത്രത്തിൽ നമ്മൾ ചെയ്യുന്നത് ചില പ്രാദേശിക മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കി അടുത്ത തിരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് അതിനാൽ നമുക്ക് തിരഞ്ഞെടുക്കാനാകുന്ന നിരവധി തിരഞ്ഞെടുപ്പുകൾ ഉണ്ടായേക്കാം എന്നാൽ ഈ സമയത്ത് മികച്ചതായി തോന്നുന്ന എന്തെങ്കിലും അടിസ്ഥാനമാക്കി ഞങ്ങൾ അവയിലൊന്ന് തിരഞ്ഞെടുക്കുന്നു ഇപ്പോൾ ഞങ്ങൾ ഒരിക്കലും തിരികെ പോയി ഒരു പഴയ തീരുമാനം പുനപരിശോധിക്കില്ല അതിനാൽ ഓരോ ഘട്ടത്തിലും നല്ല ചോയ്സ് തിരഞ്ഞെടുത്ത് ഞങ്ങൾ പരിഹാരങ്ങളുടെ ഈ ഇടത്തിലൂടെ നിർണ്ണായകമായി തിരയുന്നു ഇത് നമുക്ക് തിരയാനുള്ള ഇടത്തെ ഗണ്യമായി കുറയ്ക്കുന്നു അതിനാൽ ഏറ്റവും തന്ത്രപരമായ കാര്യം ഈ തന്ത്രം പലപ്പോഴും പ്രവർത്തിക്കുന്നില്ല എന്നതാണ് അതിനാൽ നിങ്ങളുടെ മനസ്സിൽ ഗ്രീഡി ഒരു തന്ത്രമുണ്ടെങ്കിൽ ഞങ്ങൾ തിരികെ പോയി ഞങ്ങളുടെ പ്രാദേശിക തിരഞ്ഞെടുപ്പുകൾ നടത്തിയ രീതി യഥാർത്ഥത്തിൽ ആഗോള പരമാവധി കൈവരിക്കുന്നുവെന്ന് തെളിയിക്കേണ്ടതുണ്ട് അതിനാൽ ഈ 3D മാതൃക പിന്തുടരുന്ന മൂന്ന് അൽഗോരിതങ്ങൾ ഞങ്ങൾ ഇതുവരെ കണ്ടു ഒറ്റ സോഴ്സ് ഷോർട്സ്ട് പാത്ത് പ്രശ്നത്തിനായുള്ള ഡിജ്ക്സ്ട്രയുടെ അൽഗോരിതം ആയിരുന്നു ആദ്യത്തേത് അതിനാൽ ഈ അൽഗോരിതത്തിൽ നമ്മൾ കത്തുന്ന വെർട്ടെക്സുകൾ സൂക്ഷിച്ചുവെന്നും ഓരോ ഘട്ടത്തിലും ഞങ്ങൾ അടുത്തുള്ള കത്താത്ത വെർട്ടെക്സുകൾലേക്കുള്ള ദൂരം മരവിപ്പിക്കുകയും സോഴ്സ്ൽ നിന്ന് ആ വെർട്ടെക്സുകൾലേക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം ഇതാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു അതിനാൽ ആഗോളതലത്തിൽ ഈ അൽഗോരിതത്തിൽ ഞങ്ങൾ നേടിയ ഏറ്റവും മികച്ചത് ഈ ഗ്രീഡി തന്ത്രം നിശ്ചയിച്ച ദൂരം സോഴ്സ്ൽ നിന്നുള്ള ഏറ്റവും കുറഞ്ഞ ദൂരമാണ് ഏറ്റവും മിനിമം കോസ്റ്റ സ്പാനിങ് ട്രീക് പ്രിമിന്റെ അൽഗോരിതം ആണ് അടുത്ത ബന്ധമുള്ള അൽഗോരിതം അതിനാൽ ഇവിടെ ഞങ്ങൾ ക്രമാനുഗതമായി ഒരു ട്രീ പണിയുകയും ഓരോ ഘട്ടത്തിലും ഈ ട്രീലേക്ക് ചേർക്കുകയും ചെയ്യുന്നു ഇവിടെ ഞങ്ങൾ കൈവരിച്ച ആഗോള ഒപ്റ്റിമൽ മിനിമം കോസ്റ്റ സ്പാനിങ് ട്രീ ഞങ്ങൾ നിർമ്മിക്കുന്നു എന്നതാണ് മിനിമം കോസ്റ്റ സ്പാനിങ് ട്രീക് മറ്റൊരു അൽഗോരിതം ക്രുസ്കലിന്റെ അൽഗോരിതം ആണ് ഇവിടെ ഞങ്ങൾ നേരിട്ട് ഒരു ട്രീ പണിയുന്നില്ല മറിച്ച് ഞങ്ങൾ എഡ്ജുകൾ ശേഖരിക്കുകയും ഒരു ബന്ധിത ഘടകമായി രൂപപ്പെടുകയും ചെയ്യുന്നു അതിനാൽ ഞങ്ങളുടെ സെറ്റിലെ നിലവിലെ സെറ്റ് എഡ്ജുകൾലേക്ക് ഞങ്ങൾ ചേർക്കുന്നത് തുടരുന്നു ഞങ്ങൾ ഇതിനകം തിരഞ്ഞെടുത്തിട്ടുള്ളവരുമായി ഒരു സൈക്കിൾ രൂപപ്പെടാത്ത അടുത്ത ഏറ്റവും ചെറിയ എഡ്ജ് ഇപ്പോൾ ആഗോള ഒപ്റ്റിമൽ നമ്മൾ ഈ രീതിയിൽ ശേഖരിക്കുന്ന എഡ്ജുകൾ ഒരു രൂപമാക്കുന്നു എന്നതാണ് മിനിമം കോസ്റ്റ സ്പാനിങ് ട്രീ അതിനാൽ ഇപ്പോൾ നമുക്ക് തികച്ചും വ്യത്യസ്തമായ ഒരു പ്രശ്നം നോക്കാം ഇന്റർവെൽ ഷെഡ്യൂളിംഗ് എന്ന ഒരു പ്രശ്നം അതിനാൽ ഞങ്ങൾക്ക് ഒരു പ്രത്യേക വീഡിയോ ക്ലാസ് റൂം ഉണ്ടെന്ന് കരുതുക അവിടെ ഞങ്ങൾക്ക് ഓൺലൈൻ പ്രഭാഷണങ്ങൾ നടത്താൻ കഴിയും ഇപ്പോൾ വ്യത്യസ്ത അധ്യാപകർ ക്ലാസുകൾ നൽകാൻ ക്ലാസ് മുറി ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഓരോ അധ്യാപകനും ഈ പ്രഭാഷണം നടത്താൻ ആഗ്രഹിക്കുന്ന ഒരു സ്ലോട്ട് ഉണ്ട് അതിനാൽ ഇൻസ്ട്രക്ടർ എനിക്ക് ഒരു സ്ലോട്ട് ഉണ്ട് നമുക്ക് ഒരു സമയത്ത് ആരംഭിച്ച് f i ൽ അത് പൂർത്തിയാക്കാം അതിനാൽ നിങ്ങൾക്ക് s i ൽ ആരംഭിച്ച് f i ൽ അവസാനിക്കുന്ന ഒരു സ്ലോട്ട് ഉണ്ട് ഇപ്പോൾ രണ്ട് ഇൻസ്ട്രക്ടർമാർക്ക് ഓവർ ലാപ്പിംഗ് സ്ലോട്ട് ഉണ്ടായിരിക്കാം അതിനാൽ ഇത് പോലെ സ്ലോട്ട് ആഗ്രഹിക്കുന്ന ആരെങ്കിലും അതിനാൽ ചുവന്ന സ്ലോട്ട് അവസാനിക്കുന്നതിനുമുമ്പ് നീല സ്ലോട്ട് ആരംഭിക്കുന്നു അതിനാൽ വ്യക്തമായും ഈ രണ്ട് സ്ലോട്ടുകളും ബുക്കിംഗിൽ നൽകാനാവില്ല കാരണം പരസ്പരം ഇടപെടലുകൾ ഉണ്ടായിരുന്നു അതിനാൽ ഞങ്ങളുടെ ചുമതല ബുക്കിംഗുകളുടെ ഒരു കൂട്ടം നോക്കുക എന്നതാണ് കൂടാതെ ഞങ്ങൾ തിരഞ്ഞെടുക്കുന്ന രണ്ട് ബുക്കിംഗുകളും സാധ്യമല്ലാത്ത ഉപസെറ്റ് തിരഞ്ഞെടുക്കുകയും പരസ്പരം ഇടപെടുകയും ചെയ്യുക എന്നതാണ് അതിനാൽ റൂം ഉപയോഗിക്കാൻ കഴിയുന്ന നിരവധി അധ്യാപകരെ ഞങ്ങൾ പരമാവധി വർദ്ധിപ്പിക്കുന്നു അതിനാൽ വിശാലമായി ഞങ്ങൾ ഗ്രീഡി സമീപനം പിന്തുടരുകയാണെങ്കിൽ ഇതാണ് ഞങ്ങൾ ചെയ്യുന്നത് ഇതുവരെ അനുവദിക്കാത്തതും അനുവദിക്കാൻ ഇപ്പോഴും ലഭ്യമായതുമായ എല്ലാ ബുക്കിംഗുകളിലും ചില പ്രാദേശിക തന്ത്രങ്ങളെ അടിസ്ഥാനമാക്കി ഞങ്ങൾ ഒരെണ്ണം തിരഞ്ഞെടുക്കും തുടർന്ന് ഞങ്ങൾ വൈരുദ്ധ്യമുള്ള എല്ലാ ബുക്കിംഗുകളും നീക്കംചെയ്യും ഈ ബുക്കിംഗിനൊപ്പം ഓവർലാപ്പുചെയ്ത ബുക്കിംഗുകൾ ഞങ്ങൾ അനുവദിച്ച സ്ലോട്ട് ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും ഞങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഈ ബുക്കിംഗ് ശ്രേണി സംഖ്യയെ പരമാവധിയാക്കുമെന്ന് വാദിക്കണം മുറി ഉപയോഗിക്കുന്ന അധ്യാപകരുടെ അതിനാൽ ഒരാൾ ആഗ്രഹിക്കുന്ന ചില സാധാരണ ഗ്രീഡി തന്ത്രങ്ങൾ നമുക്ക് നോക്കാം അതിനാൽ ഒരു തന്ത്രം ബുക്കിംഗ് ആരംഭിക്കുന്ന സമയം മുൻകൂട്ടി തിരഞ്ഞെടുക്കുന്നതാകാം പക്ഷേ കൌണ്ടർ ഉദാഹരണം കൊണ്ടുവരാൻ പ്രയാസമില്ല അതിനാൽ നിങ്ങൾ ഈ ചിത്രം നോക്കുകയാണെങ്കിൽ ഒരു നീണ്ട പച്ച ബുക്കിംഗ് ഉണ്ട് അത് നേരത്തേ ആരംഭിക്കുകയും മറ്റെല്ലാ ബുക്കിംഗുകളും പൂർത്തിയാക്കിയ ശേഷം അവസാനിക്കുകയും ചെയ്യും അതിനാൽ ഈ ഗ്രീഡി തന്ത്രം ഞങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈ നീണ്ട ബുക്കിംഗ് അനുവദിക്കുകയും മുഴുവൻ കാലയളവും ഒരു അദ്ധ്യാപകന് മാത്രമായി അനുവദിക്കുകയും ചെയ്യും അതേസമയം കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ ബുക്കിംഗ് തിരഞ്ഞെടുത്താൽ ആറ് അധ്യാപകരുടെ ബുക്കിംഗുകൾ നമുക്ക് തൃപ്തിപ്പെടുത്താം ഞങ്ങളുടെ ലക്ഷ്യം അധ്യാപകരുടെ എണ്ണം പരമാവധിയാക്കുക എന്നതാണ് അവർക്ക് ഒരു മികച്ച തന്ത്രം ആ മുറി ഉപയോഗിക്കാൻ കഴിയും അതിനാൽ ഈ ഗ്രീഡി തന്ത്രം വ്യക്തമായി പരാജയപ്പെട്ടു നമ്മൾ ചിന്തിച്ചേക്കാവുന്ന മറ്റ് ഗ്രീഡി തന്ത്രം ഇടവേള കുറഞ്ഞ ബുക്കിംഗ് തിരഞ്ഞെടുക്കുക എന്നതാണ് വീണ്ടും ഇവിടെ ഒരു കൌണ്ടർ ഉദാഹരണം നടുവിലെ ഇടവേള ഏറ്റവും ചെറുതാണ് എന്നാൽ നമ്മൾ ഇത് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് മറ്റ് രണ്ട് ബുക്കിംഗുകളുമായി വൈരുദ്ധ്യത്തിലാണ് അതിനാൽ നമ്മൾ രണ്ടും ഒപ്റ്റിമൽ ആയി ഭരിക്കേണ്ടതുണ്ട് അതിനാൽ ഞങ്ങൾ ഒരു ചെറിയ ഇടവേള തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു അധ്യാപകനെ മാത്രമേ മുറിയിലേക്ക് അനുവദിക്കാൻ കഴിയൂ അതേസമയം തന്ത്രം അറിയുകയും കൂടുതൽ ദൈർഘ്യമുള്ള ഇടവേളകൾ തിരഞ്ഞെടുക്കുകയും ചെയ്താൽ നമുക്ക് യഥാർത്ഥത്തിൽ രണ്ട് അധ്യാപകർക്കായി മുറി ഉപയോഗിക്കാനും മികച്ച ഒപ്റ്റിമം നേടാനും കഴിയും ഞങ്ങൾ തിരഞ്ഞെടുത്ത പ്രശ്നം അതിനാൽ മുൻ ഉദാഹരണം വൈരുദ്ധ്യങ്ങൾ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നു അതിനാൽ അവർ എത്ര ബുക്കിംഗുകൾ ഭരിച്ചുവെന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ബുക്കിംഗുകൾ തിരഞ്ഞെടുക്കാം അതിനാൽ ഇപ്പോൾ നമ്മൾ ചിന്തിച്ചേക്കാവുന്ന ഒരു തന്ത്രം മറ്റ് ബുക്കിംഗുകളുടെ ഏറ്റവും കുറഞ്ഞ എണ്ണവുമായി ഓവർലാപ്പ് ചെയ്യുന്ന ബുക്കിംഗ് തിരഞ്ഞെടുക്കുക എന്നതാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ ബുക്കിംഗ് തിരഞ്ഞെടുക്കുന്നതിലൂടെ മറ്റ് കുറച്ച് ബുക്കിംഗുകൾ സാധ്യമായതിനാൽ ഞങ്ങൾ ഒഴിവാക്കുന്നു അതിനാൽ നമുക്ക് ഈ ഉദാഹരണം നോക്കാം ഇവിടെ സെന്റർ ബുക്കിംഗ് രണ്ടെണ്ണം മാത്രം ഓവർലാപ്പുചെയ്യുന്നു ഇതും ഇതും മറ്റെല്ലാ ബുക്കിംഗും ചുരുങ്ങിയത് മൂന്നെണ്ണം കൊണ്ട് ഓവർലാപ്പുചെയ്യുന്നു അതിനാൽ ഞങ്ങൾ ഈ ബുക്കിംഗ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിന്റെ ഇരുവശങ്ങളിലുമുള്ള ബുക്കിംഗുകൾ ഞങ്ങൾ തള്ളിക്കളയുന്നു അതിനർത്ഥം നമുക്കും ഇതിൽ ഒന്നോ അതിലധികമോ ചെയ്യാം അതിനാൽ ഞങ്ങൾ ഈ സെന്റർ ബുക്കിംഗ് എടുക്കുകയാണെങ്കിൽ മൊത്തത്തിൽ നമുക്ക് മൂന്ന് ബുക്കിംഗുകൾ ചെയ്യാനാകും അതിന്റെ രണ്ട് വശങ്ങളിലും നമുക്ക് രണ്ടും ചെയ്യാൻ കഴിയില്ല അതിനാൽ നമുക്ക് ഒന്നുകിൽ രണ്ട് അതിരുകടന്നവ ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ ഇവയിൽ ആർക്കും ഇവരിൽ ആർക്കും നമുക്ക് ചെയ്യാൻ കഴിയും അതിനാൽ നമുക്ക് ആകെ മൂന്നെണ്ണം ചെയ്യാൻ കഴിയും ഇവയിൽ നമുക്ക് ആകെ മൂന്ന് ബുക്കിംഗുകൾ അനുവദിക്കാം എന്നിരുന്നാലും ഞങ്ങൾ ഇത് ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങൾ ഒരു മികച്ച തന്ത്രം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ മുകളിലുള്ള നാല് വ്യക്തമായി എടുക്കുക എന്നതാണ് ഒരു മികച്ച തന്ത്രം അതിനാൽ ഞങ്ങൾക്ക് ഈ മുറിയിൽ നാല് അധ്യാപകരെ അനുവദിക്കാം ഞങ്ങൾ ഈ തന്ത്രം ഉപയോഗിക്കുന്നില്ലെങ്കിൽ കുറഞ്ഞത് എണ്ണം വൈരുദ്ധ്യങ്ങളുള്ള ഒരാളെ ഞങ്ങൾ തിരഞ്ഞെടുക്കണം അതിനാൽ ഈ ഗ്രീഡി തന്ത്രവും പരിഹരിച്ചു അതിനാൽ ഇവിടെ നാലാമത്തെ തന്ത്രമാണ് ഞങ്ങൾ ആരംഭിക്കുന്നതുപോലുള്ള ഒരെണ്ണം തിരഞ്ഞെടുക്കുന്നതിനുപകരം ആരംഭിക്കുന്ന സമയം ഏറ്റവും നേരത്തെ തന്നെ നമുക്ക് പൂർത്തിയായ സമയം ആദ്യത്തേത് തിരഞ്ഞെടുക്കാം അതിനാൽ നമുക്ക് എതിർ ഉദാഹരണവുമായി വരാൻ കഴിയുമോ അതോ ഇത് ശരിയാണെന്ന് തെളിയിക്കാൻ ശ്രമിക്കണോ അതിനാൽ വാസ്തവത്തിൽ ഈ തന്ത്രം പ്രവർത്തിക്കുന്നു നമുക്ക് അത് എങ്ങനെ തെളിയിക്കാമെന്ന് നോക്കാം ഞങ്ങൾ അത് തെളിയിക്കുന്നതിനുമുമ്പ് അൽഗോരിതം കുറച്ചുകൂടി വ്യക്തമായി എഴുതാം അതിനാൽ ഞങ്ങൾ ബുക്കിംഗ് B സെറ്റിൽ നിന്ന് ആരംഭിക്കുന്നു ഈ സെറ്റിൽ നിന്ന് നിർമ്മിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു സ്വീകരിച്ച ബുക്കിംഗുകളുടെ ഒരു ഉപസെറ്റ് A അതിനാൽ തുടക്കത്തിൽ ഞങ്ങൾക്ക് സ്വീകാര്യമായ ബുക്കിംഗുകളൊന്നുമില്ല കാരണം ഞങ്ങൾ ഈ സെറ്റ് നിർമ്മിക്കാൻ തുടങ്ങി ഇപ്പോൾ ഞങ്ങൾ ഇനിപ്പറയുന്നവ ചെയ്യുന്നു അതിനാൽ ഇപ്പോഴും സാധ്യമായ ബുക്കിംഗുകൾ ഞങ്ങളുടെ പക്കലുള്ളിടത്തോളം കാലം റഫർ സമയം 0814 കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ഫിനിഷിംഗ് സമയം ഉള്ള ബുക്കിംഗ് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നു അത് ഞങ്ങൾ ബിയിലേക്ക് ചേർക്കുന്നു ഇപ്പോൾ അത് A യിൽ ചേർത്തുകഴിഞ്ഞാൽ ഈ b യുമായി ഓവർലാപ്പ് ചെയ്യുന്ന കൂടുതൽ ബുക്കിംഗുകൾ ഷെഡ്യൂൾ ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയില്ല അതിനാൽ ഞങ്ങളുടെ സെറ്റ് ക്യാപിറ്റൽ B യിൽ നിന്ന് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്ന ബുക്കിംഗ് b യിൽ ഓവർലാപ്പ് ചെയ്ത എല്ലാ ബുക്കിംഗുകളും ഞങ്ങൾ നീക്കംചെയ്യുന്നു അതിനാൽ ഓരോ തവണയും ഞങ്ങൾ അടുത്ത ബുക്കിംഗ് എടുക്കുന്നു അത് ഇപ്പോഴും ഏറ്റവും ചെറിയ ഫിനിഷിംഗ് സമയത്തിൽ ലഭ്യമാണ് അതിന് വൈരുദ്ധ്യമുള്ളതെല്ലാം ഞങ്ങൾ നീക്കംചെയ്യുന്നു അതിനാൽ പ്രവർത്തിക്കുന്ന പവർ അൽഗോരിത്തിന്റെ ഒരു ഉദാഹരണം ഇതാ അതിനാൽ ഇവിടെ നമുക്ക് ഒൻപത് ബുക്കിംഗുകളുണ്ട് നീല വരകൾ ബുക്കിംഗുകളെ സൂചിപ്പിക്കുന്നു കൂടാതെ ബുക്കിംഗുകളുടെ നമ്പറുകൾ അതിനു മുകളിൽ നൽകിയിരിക്കുന്നു അതിനാൽ തുടക്കത്തിൽ ഞങ്ങളുടെ സെറ്റ് B ക്ക് ഈ ഒൻപത് ബുക്കിംഗുകളും ഞങ്ങളുടെ സെറ്റ് A തുടക്കത്തിൽ ശൂന്യവുമാണ് അതിനാൽ ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ഒൻപത് ബുക്കിംഗുകളിൽ ഏറ്റവും ചെറിയ ഫിനിഷിംഗ് സമയമാണ് അത് 1 ആകുന്നു അതിനാൽ ഞങ്ങൾ 1 തിരഞ്ഞെടുത്ത് 1 തിരഞ്ഞെടുത്ത ശേഷം അതിനൊപ്പം ഓവർലാപ്പുചെയ്ത എല്ലാ ബുക്കിംഗുകളും ഞങ്ങൾ കണ്ടെത്തുന്നു അതിനാൽ 1 കൊണ്ട് 2 ഓവർലാപ്പുചെയ്യുകയും 6 ൽ സംഭരിക്കുകയും ചെയ്യുന്നു അതിനാൽ ഞങ്ങൾ ഞങ്ങളുടെ സെറ്റിൽ നിന്ന് 2 നീക്കുകയും ഞങ്ങളുടെ സെറ്റിൽ നിന്ന് 6 നീക്കം ചെയ്യുകയും ചെയ്യും അതിനാൽ ഇപ്പോൾ B 3 4 5 6 7 8 9 A എന്നിവയിലേക്ക് എറിഞ്ഞു ബുക്കിംഗ് നമ്പർ 1 ഉണ്ട് അതിനാൽ ഇപ്പോൾ ഈ 3 4 5 6 7 8 9 എന്നീ സെറ്റുകളിൽ ഏറ്റവും നേരത്തെ അവസാനിക്കുന്ന ഒന്ന് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നു അത് 3 ആണ് അതിനുശേഷം 4 എന്നത് 3 മായി പൊരുത്തപ്പെടുന്നതിനാൽ ഞങ്ങൾ നീക്കംചെയ്യുന്നു അതിനാൽ ഈ രീതിയിൽ തുടരുന്നു ഞങ്ങൾ ഇപ്പോൾ 5 തിരഞ്ഞെടുക്കുന്നു കാരണം 5 പൂർത്തിയാക്കാൻ ആദ്യത്തേതാണ് തുടർന്ന് 7 എന്നത് 5 മായി പൊരുത്തപ്പെടുന്നതിനാൽ ഞങ്ങൾ 7 നീക്കംചെയ്യുന്നു ഇപ്പോൾ നമുക്ക് രണ്ട് 8 9 എന്നിവ ശേഷിക്കുന്നു എന്നാൽ 9 ന് മുമ്പ് 8 ഫിനിഷുകൾ നമുക്ക് യഥാർത്ഥത്തിൽ ഒന്ന് തിരഞ്ഞെടുക്കാം പക്ഷേ ഞങ്ങളുടെ അൽഗോരിതം 8 എടുക്കും കാരണം 8 ന് ഏറ്റവും കുറഞ്ഞ ഫിനിഷിംഗ് സമയം ഉണ്ട് അതിനാൽ ഞങ്ങൾ 8 തിരഞ്ഞെടുക്കുന്നു തുടർന്ന് 9 സാധ്യമല്ലെന്ന് ഞങ്ങൾ പറയും അതിനാൽ ഞങ്ങൾ അത് എടുക്കുന്നില്ല ഇപ്പോൾ ഞങ്ങൾക്ക് B ശൂന്യമാണ് A എന്നത് 1 3 5 8 ആണ് B ശൂന്യമായതിനാൽ ഞങ്ങൾക്ക് ഇനിയില്ല ഷെഡ്യൂൾ ചെയ്യാനുള്ള ജോലികൾ ബഹുമാനിക്കാൻ കൂടുതൽ ബുക്കിംഗ് ഇല്ല അതിനാൽ അൽഗോരിതം അവസാനിക്കുന്നു അതിനാൽ ഈ ലിസ്റ്റിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന നാല് ബുക്കിംഗുകളുടെ പ്രായോഗിക സെറ്റ് ഞങ്ങൾ കണ്ടെത്തി അതിനാൽ അൽഗോരിതം ഞങ്ങളുടെ അൽഗോരിതം നിർമ്മിച്ച പരിഹാരം A യഥാർത്ഥത്തിൽ ശരിയാണെന്ന് കാണിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനാൽ O യുടെ ഒപ്റ്റിമൽ ബുക്കിംഗ് O ഉണ്ടെന്ന് കരുതുക ഇപ്പോൾ ഞങ്ങളുടെ പരിഹാരം A ന് സമാനമാണെന്ന് നമുക്ക് ഉഹിക്കാനാവില്ല കാരണം ഒരേ വലുപ്പത്തിലുള്ള പരിഹാരങ്ങൾ നിർമ്മിക്കാൻ ഒന്നിലധികം മാർഗങ്ങളുണ്ട് ഓർക്കുക ഞങ്ങൾക്ക് വേണ്ടത് കഴിയുന്നത്ര അധ്യാപകരെ മുറികൾക്ക് അനുവദിക്കുന്ന ഒരു പരിഹാരമാണ് അതിനാൽ ഒരേ എണ്ണം അധ്യാപകരെ അനുവദിക്കുന്നതിന് രണ്ട് വ്യത്യസ്ത വഴികളുണ്ടാകാം അതിനാൽ A O എന്നിവ സമാനമാണെന്ന് നമുക്ക് വാദിക്കാൻ കഴിയില്ല എന്നാൽ A യും O യും ഒരേ വലുപ്പത്തിലുള്ളവയാണെന്ന് കാണിക്കുന്നത് ആശ്ചര്യകരമാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മറ്റേതെങ്കിലും തന്ത്രത്തിലൂടെ ഏത് മികച്ച ബുക്കിംഗ് നിർമ്മിക്കുന്നു എന്നതിന്റെ നിമിഷം ഞങ്ങളുടെ തന്ത്രം നമ്മുടെ ഗ്രീഡി തന്ത്രം ഒരേ വലുപ്പത്തിലുള്ള ഒന്ന് നിർമ്മിക്കുന്നു അതിനാൽ ഞങ്ങളുടെ തന്ത്രം തിരഞ്ഞെടുക്കുന്ന ബുക്കിംഗുകളുടെ ഒരു കൂട്ടം A ആയിരിക്കട്ടെ ഇത് ക്രമവും ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നതുമാകാം അതിനാൽ i 1 ആദ്യം തിരഞ്ഞെടുത്തു പിന്നെ i 2 എന്നിങ്ങനെ അതിനാൽ i 1 തിരഞ്ഞെടുക്കുമ്പോൾ i 2 ഇപ്പോഴും സാധ്യമാണ് മൊത്തത്തിലുള്ള ആദ്യ ഫിനിഷിംഗ് സമയം i 1 ആയതിനാൽ i 1 ന്റെ ഫിനിഷിംഗ് i 2 ന്റെ ആരംഭ സമയത്തിന് മുമ്പാണ് i 2 ന്റെ ഫിനിഷിംഗ് സമയം i 3 ആരംഭിക്കുന്ന സമയത്തിന് മുമ്പാണ് അതിനാൽ A യിലെ ഈ ബുക്കിംഗുകൾ അടുക്കിയിരിക്കുന്ന ക്രമത്തിലാണ് ഇപ്പോൾ നമുക്ക് m ബുക്കിംഗ് j 1 മുതൽ j m വരെ ക്രമീകരിച്ച ക്രമത്തിൽ വീണ്ടും ഒരു മികച്ച പരിഹാരമുണ്ടെന്ന് അനുമാനിക്കാം അതിനാൽ j 2 ആരംഭിക്കുന്നതിന് മുമ്പ് j 1 അവസാനിക്കുന്നു j 3 ആരംഭിക്കുന്നതിന് മുമ്പ് j 2 അവസാനിക്കുന്നു അതിനാൽ വാസ്തവത്തിൽ k എന്നത് സമാനമാണെന്ന് കാണിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഗ്രീഡി തന്ത്രം ഉൽപാദിപ്പിക്കുന്ന പരിഹാരത്തിന്റെ അതേ വലുപ്പമാണ് ഒപ്റ്റിമൽ പരിഹാരം അതിനാൽ i j ശ്രേണിയിലെ ഓരോ ജോലിക്കും A ശ്രേണിയിലെ അനുബന്ധ ജോലികൾ O സീക്വൻസിലെ അനുബന്ധ ജോലിയ്ക്ക് ശേഷം അവസാനിക്കുന്നില്ലെന്ന് ഞങ്ങൾ കാണിക്കും അതിനാൽ k വരെയുള്ള ഓരോ r നും i ന്റെ f എന്നത് j r ന്റെ f നേക്കാൾ മുമ്പുള്ളതോ തുല്യമോ ആണ് അതിനാൽ ഈ അർത്ഥത്തിൽ അത്യാഗ്രഹപരമായ പരിഹാരം ഏതെങ്കിലും ഒപ്റ്റിമൽ പരിഹാരത്തേക്കാൾ മുന്നിലാണെന്ന് വാദിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു മറ്റേതെങ്കിലും രീതിയിലൂടെ നമുക്ക് ഉത്പാദിപ്പിക്കാം അതിനാൽ ഈ ക്ലെയിമിന്റെ തെളിവ് r അതിനാൽ ആദ്യത്തെ ജോലി i 1 നോക്കുമ്പോൾ i 1 മൊത്തത്തിൽ എല്ലാ ജോലികൾക്കുമിടയിലെ ആദ്യകാല ഫിനിഷിംഗ് സമയമാണെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ലിസ്റ്റിലെ എല്ലാ ബുക്കിംഗുകളും കാരണം i 1 ന് എല്ലാ ബുക്കിംഗുകളിലും ആദ്യകാല ഫിനിഷിംഗ് സമയം ഉണ്ട് തീർച്ചയായും j 1 ന്റെ f നേക്കാൾ കുറവോ തുല്യമോ ആയിരിക്കും കാരണം j 1 മൊത്തത്തിലുള്ള ഫിനിഷ് സമയത്തേക്കാൾ ചെറുതായിരിക്കില്ല ഇപ്പോൾ r മൈനസ് 1 വരെ r മൈനസ് 1 ന്റെ ബുക്കിംഗ് i മൈനസ് 1 എന്ന് ഫിനിഷ് സമയം സ്ഥാപിച്ചിട്ടുണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം അപ്പോൾ ഞങ്ങൾ j r ന് മുമ്പ് പൂർത്തിയാക്കുന്നത് ഇങ്ങനെയാണെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നു കാരണം ഞങ്ങൾക്ക് ഇത് ഇല്ലായിരുന്നുവെങ്കിൽ ചുവടെയുള്ളതുപോലെ ഞങ്ങൾക്ക് ചിത്രം ഉണ്ടാകും അതിനാൽ j r മൈനസ് 1 ന് മുമ്പ് i r മൈനസ് 1 പൂർത്തിയാക്കേണ്ടതുണ്ട് ഇപ്പോൾ j r യഥാർത്ഥത്തിൽ i r ന് മുമ്പ് അവസാനിക്കുന്നുവെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നുവെന്ന് കരുതുക ഈ ഘട്ടത്തിൽ j r ഇപ്പോഴും സാധ്യമാണെന്ന് ഞങ്ങളുടെ അൽഗോരിതം കണ്ടെത്തും കാരണം ഇത് i r മൈനസ് 1 മായി ഓവർലാപ്പ് ചെയ്യുന്നില്ല കൂടാതെ j r ൽ നിലനിൽക്കുന്ന ജോലികളിൽ i r നേക്കാൾ ആദ്യകാല ഫിനിഷിംഗ് സമയം ഉണ്ട് അതിനാൽ നമ്മുടെ ഗ്രീഡി തന്ത്രം i r എന്നതിനേക്കാൾ j r തിരഞ്ഞെടുക്കും അതിനാൽ ഞങ്ങൾ i r അല്ല j r അല്ല തിരഞ്ഞെടുത്തത് എന്നതിനർത്ഥം ഞങ്ങൾക്ക് ഇതുപോലൊരു ചിത്രം ഉണ്ടായിരിക്കില്ല എന്നാണ് j r ന് ശേഷം i r കർശനമായി അവസാനിക്കുന്നതാകാൻ കഴിയില്ല അത് j r അവസാനിക്കുന്നതിനു മുമ്പോ അല്ലെങ്കിൽ അതേ സമയം അവസാനിക്കണം അതിനാൽ ഗ്രീഡി തന്ത്രം എല്ലായ്പ്പോഴും മുന്നിലുണ്ടെന്ന് ഇപ്പോൾ കാണിച്ചുകഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ പരിഹാരം മികച്ചതായിരിക്കണമെന്ന് ഞങ്ങൾ ഇപ്പോൾ അവകാശപ്പെടും അതിനാൽ m യഥാർത്ഥത്തിൽ k നേക്കാൾ വലുതാണെന്ന് കരുതുക അപ്പോൾ നമ്മൾ i k യിൽ എത്തുമ്പോൾ അത് j k യ്ക്ക് മുമ്പാണെന്ന് നമുക്ക് അറിയാം ഇപ്പോൾ k നേക്കാൾ ദൈർഘ്യമേറിയ ഒരു പരിഹാരം ഞങ്ങളുടെ പക്കലുള്ളതിനാൽ j k പ്ലസ് 1 എന്ന് വിളിക്കപ്പെടുന്ന മറ്റൊരു ജോലി ഉണ്ട് m കർശനമായി കരുതുന്നു കാരണം ഇത് ജോബ് ബുക്കിംഗ് j m വരെ പോകുന്നു അതിനാൽ ഇത് സംഭവിക്കുന്നതിനാൽ j k ന് ശേഷം ജോലിയുടെ ക്രമവും ബുക്കിംഗുകളുടെ ക്രമവും ഉണ്ടായിരിക്കണം അതിനാൽ നമുക്ക് ക്രമം നോക്കാം ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഈ പ്രത്യേക ബുക്കിംഗ് മുമ്പ് സംഭവിച്ചതൊന്നും തള്ളിക്കളയുന്നില്ല എന്നതാണ് അവകാശവാദം അതിനാൽ i 1 മുതൽ i k വരെ നോക്കിയാൽ ഇവയൊന്നും j k പ്ലസ് 1 കൊണ്ട് ഓവർലാപ്പ് ചെയ്യുന്നില്ല കാരണം j k പ്ലസ് 1 j ന് ശേഷം j k അതിനാൽ j k പ്ലസ് 1 ആരംഭിക്കുന്നതിന് മുമ്പ് j k j k പൂർത്തിയാകുന്നതിന് മുമ്പ് i k പൂർത്തിയാക്കുന്നു അതിനാൽ i k എന്നത് j k പ്ലസ് 1 ന് അനുയോജ്യമാണ് ഇതിനർത്ഥം ഈ ഘട്ടത്തിൽ B ശൂന്യമല്ല എന്നാണ് നമ്മുടെ ഗ്രീഡി അൽഗോരിതം പ്രോസസ്സിംഗ് i 1 മുതൽ i k വരെ പൂർത്തിയാക്കേണ്ടിവരുമ്പോൾ ഇവ ശൂന്യമല്ല എന്നാൽ ഞങ്ങൾ i k യിൽ തുടങ്ങുന്നുവെന്നും ഞങ്ങളുടെ ഗ്രീഡി അൽഗോരിതം നിർത്താനുള്ള ഒരേയൊരു കാരണം B ശൂന്യമാണെന്നും മാത്രമാണ് അതിനാൽ ഒരു ജോലിയോ ബുക്കിംഗോ ഉണ്ടെങ്കിൽ j k പ്ലസ് 1 അപ്പോൾ ഈ ഘട്ടത്തിൽ ഞങ്ങളുടെ അൽഗോരിതം നിർത്തിവെക്കാൻ കഴിയില്ല അതിനാൽ ഒരു വൈരുദ്ധ്യമുണ്ട് അതിനാൽ k യ്ക്ക് അപ്പുറം പോകുന്ന ഒപ്റ്റിമൽ സൊല്യൂഷനിൽ ഞങ്ങൾക്ക് ബുക്കിംഗുകൾ ഉണ്ടാകില്ല അതിനാൽ m k ന് തുല്യമായിരിക്കണം അതിനാൽ ഇത് ശരിയാണെന്ന് കാണിച്ചുകഴിഞ്ഞാൽ ഇത് എങ്ങനെ നടപ്പാക്കുമെന്ന് നമുക്ക് വേഗത്തിൽ നോക്കാം സങ്കീർണ്ണതയുടെ മുകൾഭാഗം കണക്കാക്കാം അതിനാൽ തുടക്കത്തിൽ ഞങ്ങൾ m ബുക്കിംഗുകൾ സമയം പൂർത്തിയാക്കി ക്രമീകരിക്കുന്നു ഇതിന് n ബുക്കിംഗിനായി സമയം എടുക്കുന്നു ഇപ്പോൾ ഈ ക്രമപ്പെടുത്തിയ ക്രമത്തിൽ 1 2 വരെ n വരെ ബുക്കിംഗുകൾ പുനർനാമകരണം ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം അതിനാൽ 1 ബുക്കിംഗിന് ആദ്യകാല ഫിനിഷിംഗ് സമയമുണ്ട് 2 ബുക്കിംഗിന് രണ്ടാമത്തെ ആദ്യ ഫിനിഷിംഗ് സമയമുണ്ട് ഇപ്പോൾ ഞങ്ങൾ ഒരു ഓർഡർ n സ്കാനിൽ സജ്ജമാക്കി ST യുടെ ഒരു ST അറേ ബുക്കിംഗ് അറേയുടെ പ്രാരംഭ സമയം അടങ്ങിയിരിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ ബുക്കിംഗ് 1 ൽ ആരംഭിക്കുകയും ഓരോ തവണ ബുക്കിംഗ് j തിരഞ്ഞെടുക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ j പ്ലസ് 1 മുതൽ ആരംഭിക്കുകയും ബുക്കിംഗിന്റെ ആരംഭ സമയം സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഞങ്ങൾ നോക്കുന്നു അതിനാൽ ഈ ബുക്കിംഗുകൾ സമയത്തിന്റെ ക്രമത്തിലാണ് എന്ന് ഞങ്ങൾക്ക് അറിയാം അതിനാൽ j ന് ശേഷം ബുക്കിംഗ് അവസാനിക്കുന്നത് j പ്ലസ് 1 ആണെന്ന് നമുക്കറിയാം എന്നാൽ ഇത് ആരംഭിക്കുന്ന സമയം j ന്റെ അവസാന സമയത്തിനപ്പുറമല്ലെങ്കിൽ അത് ഓവർലാപ്പുചെയ്യുന്നു അതിനാൽ അത് പൊരുത്തപ്പെടാൻ കഴിയില്ല അതിനാൽ f j അവസാനിച്ചതിനുശേഷം ആരംഭിക്കുന്ന ഏറ്റവും ചെറിയ k കണ്ടെത്തുന്നതുവരെ ഞങ്ങൾ ഈ അറേ ST സ്കാൻ ചെയ്യും അതിനാൽ ഈ വിധത്തിൽ ഒരു ഓർഡർ n സ്കാൻ ചെയ്താൽ നമുക്ക് ഞങ്ങളുടെ എല്ലാ ബുക്കിംഗുകളിലൂടെയും പോയി ഗ്രീഡി ഒപ്റ്റിമൽ സെറ്റ് എടുക്കാം അതിനാൽ ഇത് ഒരു ഓർഡർ ആണ് n സ്കാൻ സോർട്ടിംഗ് ഓർഡർ എടുക്കുന്നു n log n ചെയ്യുന്നു അതിനാൽ മൊത്തത്തിൽ ഈ ഗ്രീഡി തന്ത്രം ശരിയാണ് ഇതിന് O n log n എടുക്കും